അതിനാൽ ഒരൊറ്റ ഉറവിട ഹ്രസ്വമായ പാത്ത് പ്രശ്നത്തിനായുള്ള ഡിജക്സ്ട്രയുടെ അൽഗോരിതംDijkstra's algorithm വിശകലനം ചെയ്യാം അതിനാൽ ഞങ്ങൾ ഉപയോഗിച്ച അനലോഗിയിൽ ലംബങ്ങൾ കത്തിച്ചാണ് ഡിജക്സ്ട്രയുടെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കുക അതിനാൽ കത്തിച്ച വെർട്ടീസുകളുടെ ട്രാക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്നു തുടക്കത്തിൽ ഒന്നും സന്ദർശിച്ചിട്ടില്ല തുടക്കത്തിൽ ഏതെങ്കിലും ശീർഷകത്തിലേക്കുള്ള ദൂരം ഞങ്ങൾക്ക് അറിയില്ല അതിനാൽ അനന്തമായ എല്ലാ ദൂരങ്ങളും ഞങ്ങൾ അനുമാനിക്കുന്നു ഉറവിട ശീർഷകത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതിനെ 1 ഹിച്ച് 1 എന്ന് വിളിക്കാം അതിനാൽ ഞങ്ങൾ അതിന്റെ ദൂരം 0 ആയി സജ്ജമാക്കി തുടർന്ന് കത്തിക്കാത്തതും കത്തിക്കാത്തവയിൽ ഏറ്റവും കുറഞ്ഞ ദൂരമുള്ളതുമായ ആദ്യത്തെ ശീർഷകം ഞങ്ങൾ ആവർത്തിച്ച് എടുക്കുന്നു സന്ദർശിക്കുകയും അയൽവാസികളിലേക്കുള്ള ദൂരം വീണ്ടും കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ അൽഗോരിതംസിന്റെ സങ്കീർണ്ണത നോക്കുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഡിജക്സ്ട്രയുടെ അൽഗോരിതംസ് ഇപ്പോൾ അപ്ഡേറ്റുകളുടെ ഈ ശ്രേണികളാക്കുന്നു ഇത് bfs dfs എന്നിവയിലേക്കുള്ള ഒരു ബിറ്റ് വിശകലനമാണ് കാരണം ഇത് വെർട്ടീസുകളിൽ സന്ദർശനം തുടരുന്നു മാത്രമല്ല ഇത് എല്ലാ ശീർഷകങ്ങളും ഒരു തവണ മാത്രമേ സന്ദർശിക്കുകയുള്ളൂ ഇപ്പോൾ അതിന്റെ സന്ദർശനങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ വെർട്ടീസുകൾ ആദ്യം വീതിയിൽ നിന്നോ ആദ്യം ആഴത്തിൽ നിന്നോ വ്യത്യസ്തമാണ് ഈ ഓർഡർ യഥാർത്ഥത്തിൽ ശരിയാണെന്ന് ഞങ്ങൾ ന്യായീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഓരോ ഘട്ടത്തിലും വീതിയുടെ ആദ്യ തിരയൽ അതിന്റെ എല്ലാ അയൽക്കാരെയും കാണുകയും അവരുടെ വെർട്ടെക്സ് നമ്പറിന്റെ ക്രമത്തിൽ പറയുന്ന സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്യുന്നു ആഴത്തിലുള്ള ആദ്യ തിരയൽ ആദ്യ അയൽക്കാരനെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് കൂടുതൽ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഡിജക്സ്ട്രാ അൽഗോരിതം വ്യത്യസ്ത തന്ത്രം ഉപയോഗിക്കുന്നു അത് ആദ്യത്തേതും ഏറ്റവും ചെറിയ ദൂരവും സന്ദർശിച്ച അയൽക്കാരനും തിരഞ്ഞെടുക്കുക അതിനാൽ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ന്യായീകരിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരിക്കലും തിരിച്ചുപോവുകയില്ലെന്നും പ്രതീക്ഷിക്കാം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള തന്ത്രം ശരിയാണെന്ന് ഞാൻ വ്യത്യസ്തമായ ഒന്ന് തിരഞ്ഞെടുക്കുമായിരുന്നു അതിനാൽ അത്യാഗ്രഹികളായ അൽഗോരിതംസ് എന്നറിയപ്പെടുന്ന അൽഗോരിതംസിന്റെ ഒരു പൊതു ക്ലാസാണിത് അവിടെ നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ തിരഞ്ഞെടുക്കാവുന്ന നിരവധി ഭാഗങ്ങളുടെ പാതകളുണ്ട് ഓരോ ഘട്ടത്തിലും ചില പ്രാദേശിക വിവരങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തുന്നു ഈ സമയത്ത് ഇത് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും മികച്ച ചോയിസായി തോന്നുന്നു തുടർന്ന് പ്രാദേശിക വിവരങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ മികച്ച തിരഞ്ഞെടുപ്പ് ആഗോളതലത്തിൽ സ്വീകരിക്കേണ്ട ഏറ്റവും മികച്ച പാതയായി മാറുന്നു അതിനാൽ അത്തരം അത്യാഗ്രഹികളായ അൽഗോരിതം അടുത്ത ഘട്ടത്തിന്റെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നൽകുന്നുവെന്ന് സ്ഥാപിക്കേണ്ടത് പ്രധാനമാണ് ഞങ്ങൾക്ക് ഒരു ആഗോള ഒപ്റ്റിമൽ ആണ് കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രാദേശിക നിയമശാസ്ത്രം ഞങ്ങൾക്ക് ശരിയായ മൂല്യം നൽകില്ല അതിനാൽ ആദ്യം നമുക്ക് ഡിജക്സ്ട്രാ അൽഗോരിത്തിന്റെ കൃത്യത നോക്കാം അതിനാൽ ഈ പ്രത്യേക കേസിൽ കൃത്യത സ്ഥാപിക്കുന്നതിനുള്ള താക്കോൽ ഒരു മാറ്റമില്ലാത്തത് ശരിയാണെന്ന് സ്ഥാപിക്കുന്നതാണ് അതിനാൽ ഇപ്പോൾ ആവർത്തനത്തിന്റെ ഒരു ശ്രേണിയിൽ നിങ്ങൾ കണ്ടതുപോലെ ഡിജക്സ്ട്രാ അൽഗോരിതം മുന്നോട്ട് പോകുന്നു അവ n ആവർത്തനമാണ് ഓരോ ആവർത്തനത്തിലും വെർട്ടീസുകളുടെ ഈ കൃത്യത കത്തിച്ചതും പൊള്ളാത്തതുമായി നമുക്ക് ഉണ്ട് എന്നതാണ് മാറ്റമില്ലാത്തത് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കരിഞ്ഞ വെർട്ടീസുകൾ ശരിയായി പരിഹരിച്ചതാണ് അതായത് ഏത് സമയത്തും കത്തിച്ച സെറ്റ് വെർട്ടീസുകളിലേക്ക് നിയോഗിച്ചിട്ടുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ആ ദൂരങ്ങൾ യഥാർത്ഥത്തിൽ ആ വെർട്ടക്സിലേക്കുള്ള ഉറവിട വെർട്ടീസുകളിലെ ഏറ്റവും കുറഞ്ഞ ദൂരം അതിനാൽ ഈ ഇൻഡക്റ്റീവ് മാറ്റമില്ലാത്തത് ശരിയാണെന്ന് ഞങ്ങൾ കരുതുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ശരിയാണ് കാരണം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കത്തിച്ച ഒരേയൊരു ശീർഷകം ആരംഭ വെർട്ടെക്സ് ആണ് ശരിയാണ് അതിനാൽ ഞങ്ങൾ കത്തിച്ച ആദ്യത്തെ ശീർഷകം s ആണ് അത് 0 എന്നതിലേക്കുള്ള ദൂരമാണെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ തീർച്ചയായും ഈ സമയത്ത് ഈ സ്വത്ത് കത്തിച്ച വെർട്ടീസുകൾക്കിടയിലും ദൂരങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിലും ശരിയാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് നീട്ടിയിട്ടുണ്ടെന്ന് കരുതുക കുറച്ച് ലംബങ്ങൾക്കായി പറയുക ഇപ്പോൾ പുതിയൊരെണ്ണം ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരു ശീർഷകം v തിരഞ്ഞെടുക്കും അതായത് x ലേക്കുള്ള ദൂരവും x v ന്റെ ഭാരവും നോക്കിയാൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ആകെ തുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ v യിലേക്കുള്ള ദൂരം കത്തിക്കാത്ത എല്ലാ ലംബങ്ങളിലും ഇത് ഏറ്റവും ചെറുതാണ് അതിനാൽ ഇത് ഇപ്പോൾ ഞങ്ങളുടെ കത്തിച്ച സെറ്റിലേക്ക് ചേർത്താൽ വലതുവശത്ത് ഞങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതുപോലെ വി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിനാൽ വി യുടെ ദൂരം നമ്മൾ ഇപ്പോൾ കണക്കാക്കിയതിനേക്കാൾ ചെറുതായിരിക്കരുത് മാത്രമല്ല ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ഇത് പിന്നീടുള്ള അപ്ഡേറ്റിൽ അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ മാറ്റി കാരണം പിന്നീടുള്ള അപ്ഡേറ്റിൽ പിന്നീടുള്ള ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരു കത്തിച്ച സെറ്റ് നീട്ടി പുതിയതൊന്ന് ഉൾപ്പെടുത്തിയിരിക്കാം ഇപ്പോൾ ഒരു x മുതൽ v വരെ ഞങ്ങൾ ക്ലെയിം ചെയ്ത പാതയേക്കാൾ ചെറുതായ y മുതൽ w വരെ v ലേക്ക് ഒരു പാത ഉണ്ടായിരുന്നോ അതിനാൽ y ലേക്കുള്ള ദൂരവും wxy ന്റെ വിലയും കാണാൻ എളുപ്പമാണ് ഇപ്പോൾ ഇത് മുമ്പത്തേതിനേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം കാരണം നമ്മൾ v തിരഞ്ഞെടുക്കുന്നു w അല്ല കാരണം ഈ സമയത്ത് w എന്നത് ഏറ്റവും ചെറിയ ഒന്നല്ല v ആയിരുന്നു ഒരുപക്ഷേ അവർ തുല്യരായിരിക്കാം പക്ഷേ തീർച്ചയായും w നെക്കാൾ കുറവായിരുന്നില്ല അതിനാൽ പിന്നീടുള്ള ഘട്ടത്തിൽ നിങ്ങൾ w ലേക്ക് പോയാൽ w ൽ എത്താൻ കുറഞ്ഞത് സമയമെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിനുശേഷം w മുതൽ v വരെ പോകുന്നതിനുള്ള ചിലവ് കൂടി ഞങ്ങൾ വഹിക്കേണ്ടതുണ്ട് അതിനാൽ y മുതൽ w വരെ v മുതൽ v വരെ v അടുത്ത പാത ശരിയായ പാതയേക്കാൾ മികച്ചതായിരിക്കുമെന്ന് കണ്ടെത്താനായാൽ പിന്നീടുള്ള ഒരു പാതയില്ല അതിനാൽ അടുത്തതായി ഞങ്ങൾ കത്തിച്ച ശീർഷകം ശരിയായി പരിഹരിച്ച മാറ്റത്തെ ഇത് പുന ab സ്ഥാപിക്കുന്നു അതിനാൽ ഡിജക്സ്ട്ര അത്യാഗ്രഹ തന്ത്രം യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ശരിയായി പരിഹരിക്കുന്നുവെന്ന് കാണിക്കാനുള്ള ഒരു മാർഗമാണിത് അതിനാൽ ഇത് ശരിയാണെന്ന് ഇപ്പോൾ സ്ഥാപിച്ചുകഴിഞ്ഞാൽ നമുക്ക് സങ്കീർണ്ണത നോക്കാം അതിനാൽ ഉണ്ട് ഇതിൽ വ്യക്തമായ ചില ലൂപ്പുകൾ അതിനാൽ ആദ്യത്തേത് ഉണ്ട് തുടർന്ന് സന്ദർശിച്ച മൂല്യങ്ങളെ തെറ്റായി ആരംഭിക്കുന്നതിനും അനന്തതയിലേക്കുള്ള ഉദാഹരണങ്ങൾ ക്രമീകരിക്കുന്നതിനും ഒരു ഓർഡർ എൻ ലൂപ്പ് ഉണ്ട് ഇപ്പോൾ ഇവിടെ മറ്റൊരു ഓർഡർ n ലൂപ്പ് ഉണ്ട് ഈ ഓർഡർ n ലൂപ്പിനുള്ളിൽ രണ്ട് ലൂപ്പുകൾ ഉണ്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ വ്യക്തമാണ് അതിനാൽ ഇവിടെ x നെക്കുറിച്ചും പുതിയ ശീർഷകത്തെക്കുറിച്ചും ഞങ്ങൾ ഒരിക്കൽ സന്ദർശിച്ചുകഴിഞ്ഞാൽ അതിന്റെ out ട്ട്ഗോയിംഗ് അയൽവാസികളിലൂടെ കടന്നുപോകണം ശരിയാണ് Q ന് പുറത്ത് പോകുന്ന എല്ലാ അരികുകളും ഒരു സ്കാൻഫ് ഉണ്ട് അതിനാൽ അതൊരു ലൂപ്പാണ് മാത്രമല്ല ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട് അത് ഒരു ശീർഷകം സന്ദർശിക്കുന്നതിനുമുമ്പ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കണം ശരിയാണ് അതിനാൽ ഞങ്ങൾ സന്ദർശിക്കാത്ത എല്ലാ ലംബങ്ങളിലൂടെയും പോയി ഏറ്റവും കുറഞ്ഞ ദൂരം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ പൊതുവായി ഇത് ഒരു പ്രത്യേക ക്രമത്തിലല്ലാത്ത ഒരു ലിസ്റ്റോ അറേയോ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കണ്ടെത്തി മുഴുവൻ അറേയും സ്കാൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു ഓർഡർ n സ്ക്വയറാണ് അതിനാൽ ഇത് ഒരു ഓർഡർ n ഘട്ടമാണ് അത് ഇവിടെ എടുക്കുന്ന സമയം ഞങ്ങൾ എങ്ങനെയാണ് എഡ്ജ് പ്രതിനിധീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾ കണ്ട ബാഹ്യ ലൂപ്പ് പ്രവർത്തി സമയം ഓരോ ആവർത്തനത്തിലും ഞങ്ങൾ ഒരു ശീർഷകം കത്തിച്ചു കത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ശീർഷകം കണ്ടെത്താൻ ഇതിന് ഒരു ഓർഡർ n സ്കാൻ ആവശ്യമാണ് ഞങ്ങൾ ശീർഷകം കത്തിച്ചതിന് ശേഷം ആ ലംബങ്ങളുടെ കത്തിച്ച സമയങ്ങൾ അപ്ഡേറ്റുചെയ്യുന്നതിന് ഞങ്ങൾ അയൽക്കാരെ സ്കാൻ ചെയ്യണം ഇപ്പോൾ ഞങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾക്ക് ഒരു സമീപസ്ഥ മാട്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ചുട്ടുകളയാൻ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതിന്റെ പുതിയ അയൽക്കാരനെ കണ്ടെത്തി അടുത്തുള്ള മാട്രിക്സിൽ നിങ്ങൾക്കായി വരി സ്കാൻ ചെയ്യണം അതിനാൽ ഇത് ഓർഡർ n സമയം എടുക്കും ശരിയാണ് അതിനാൽ നമ്മൾ ബാഹ്യ ക്രമത്തിലാണ് n അകത്ത് നമുക്ക് രണ്ട് ഓർഡർ n കാര്യങ്ങൾ പരസ്പരം സ്വതന്ത്രമാണ് അതിലൊന്ന് കത്തിക്കാത്ത ഏറ്റവും കുറഞ്ഞ കത്തിയ ശീർഷകം കണ്ടെത്തുക അടുത്തത് കത്തിക്കാനുള്ള ശീർഷകം രണ്ടാമത്തേത് അതിന്റെ എല്ലാ അയൽവാസികളെയും അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് അതിനാൽ ഈ ഓർഡർ n കാര്യം ഒരു ഓർഡർ n ലൂപ്പിനുള്ളിൽ ഉള്ളതിനാൽ മൊത്തത്തിൽ അതിന്റെ ഓർഡർ n സ്ക്വയർ അതിനാൽ ഇപ്പോൾ ചുവടെയുള്ള x ൽ ഒന്ന് തീർച്ചയായും ഈ സമീപ മാട്രിക്സ് ആണ് ശരിയാണ് അതിനാൽ bfs dfs എന്നിവയിൽ നമ്മൾ കണ്ടത് ഞങ്ങൾ ഒരു സമീപസ്ഥല മാട്രിക്സിൽ നിന്ന് നീങ്ങുകയാണെങ്കിൽ സമീപസ്ഥലങ്ങളുടെ ലിസ്റ്റ് പ്രത്യേകത്തിന്റെ ലംബങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ പ്രത്യേക വെർട്ടെക്സിന്റെ എല്ലാ അയൽവാസികളും കൂടുതൽ കാര്യക്ഷമമാകും അതിനാൽ നമുക്ക് ഇവിടെയും ഇതുതന്നെ ചെയ്യാൻ കഴിയും അതിനാൽ ഞങ്ങൾ സമീപസ്ഥല മാട്രിക്സിൽ നിന്ന് സമീപസ്ഥല ലിസ്റ്റ് പ്രാതിനിധ്യത്തിൽ നിന്ന് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഓരോ ആവർത്തനങ്ങളിലെയും രണ്ടാമത്തെ ഓർഡർ n ലൂപ്പിനെ മൊത്തത്തിലുള്ള ഓർഡർ n വിലയായി കണക്കാക്കാം കാരണം എല്ലാ ആവർത്തനങ്ങളിലുടനീളം ഞങ്ങൾ ഓരോ അരികിലും ഒരുതവണ മാത്രം പര്യവേക്ഷണം ചെയ്യും ഞങ്ങൾ അതിന്റെ ഉറവിട ശീർഷകം കത്തിക്കുന്നു അതിനാൽ ഓർഡർ n ന്റെ രണ്ടാമത്തെ സംഭാവന ഒരു സമീപസ്ഥല ലിസ്റ്റ് ഉപയോഗിച്ച് പരിഹരിക്കപ്പെടും പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇപ്പോഴും ആദ്യത്തെ ഓർഡർ n സ്റ്റെപ്പ് ഉണ്ട് അത് ഏറ്റവും കുറഞ്ഞത് കണ്ടെത്തുക എന്നതാണ് അതിനാൽ അൺബിൻ അൺവിസിറ്റഡ് വെർട്ടീസുകളുമായി ബന്ധപ്പെട്ട കത്തിച്ച സമയത്തിന്റെ ഒരു ലിസ്റ്റ് ഞങ്ങളുടെ പക്കലുണ്ട് അവയിൽ ഏറ്റവും കുറഞ്ഞത് കണ്ടെത്തേണ്ടതുണ്ട് ഇത് ഓർഡർ എൻ സ്റ്റെപ്പായി തുടരുന്നു അതിനാൽ മൊത്തത്തിൽ ഞങ്ങൾ ഒരു സമീപസ്ഥല പട്ടികയിലേക്ക് മാറിയെങ്കിലും ഇത് മാത്രം ഞങ്ങളെ സഹായിക്കുന്നില്ല കാരണം വലിയ ലൂപ്പിനുള്ളിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഓർഡർ ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇപ്പോഴും n സ്ക്വയറിലാണ് അതിനാൽ ഈ കുപ്പി കഴുത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ സജീവമാക്കുക കത്തിച്ച സമയം ഏറ്റവും സങ്കീർണ്ണമായ ഡാറ്റാ ഘടനയിൽ ഞങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഡാറ്റാ സ്ട്രക്ചർ ആവശ്യമുള്ളതിനാൽ ഇത് മാറുന്നു അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഘടകം വേഗത്തിൽ കണ്ടെത്താനും നീക്കംചെയ്യാനും കഴിയും എന്നാൽ ഞങ്ങൾക്ക് അത് ലഭിച്ചുകഴിഞ്ഞാൽ മൂല്യങ്ങൾ വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതിനാൽ മൊത്തത്തിൽ അപ്ഡേറ്റുചെയ്യലും എക്സ്ട്രാക്റ്റുചെയ്യലും രണ്ടും ഏകദേശം തുല്യമാണ് അതിനാൽ ട്രീ പോലുള്ള ഘടന ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ചും ഹീപ്പ് എന്നറിയപ്പെടുന്ന ഒരു നല്ല ഡാറ്റാ സ്ട്രക്ചർ ഉണ്ടെന്ന് പിന്നീടുള്ള ഒരു പ്രഭാഷണത്തിൽ നാം കാണും ഇത് ലോഗ് എൻ ടൈമിൽ ഈ രണ്ട് പ്രവർത്തനങ്ങളും നടത്താൻ ഞങ്ങളെ അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് n മൂല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മൂല്യം കണ്ടെത്താനും വായിക്കാനും കഴിയുന്ന സമയം ലോഗിൻ ചെയ്യുക ഞങ്ങൾക്ക് ഒരു പുതിയ മൂല്യം ഉൾപ്പെടുത്താനോ ഇതിനകം ഒരു കൂമ്പാരത്തിലുള്ള ഒരു മൂല്യം അപ്ഡേറ്റുചെയ്യാനോ കഴിയും ഈ പ്രവർത്തനങ്ങളെല്ലാം ലോഗ് എൻ സമയം മാത്രമേ എടുക്കൂ അതിനാൽ ഇത് ഞങ്ങൾ പിന്നീട് കാണുകയും ഇത് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നുവെങ്കിൽ അത് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ബേൺ സമയം കണ്ടെത്തുന്നതിന് ലോഗ് എൻ സമയം എടുക്കും എന്നതാണ് ഇപ്പോൾ നിലവിലെ ബേൺ വെർട്ടെക്സിനോട് ചേർന്നുള്ള വെർട്ടീസുകൾ അപ്ഡേറ്റുചെയ്യുമ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ ഇത് O m തവണ ചെയ്യുന്നു കാരണം O m അരികുകൾ കാരണം എന്നാൽ ഓരോ അപ്ഡേറ്റുകളും വീണ്ടും O log n എടുക്കുന്നു അതിനാൽ ഞങ്ങളുടെ സങ്കീർണ്ണതയ്ക്ക് ഇപ്പോൾ രണ്ട് സംഭാവനകളുണ്ട് അതിനാൽ ഇത് ഏറ്റവും കുറഞ്ഞ ശീർഷകം തിരഞ്ഞെടുക്കുന്നതിലൂടെ വരുന്നു ഏറ്റവും കുറഞ്ഞ ശീർഷകം എക്സ്ട്രാക്റ്റുചെയ്യുന്നതിന് ഞങ്ങൾ ഇത് n തവണയും ഓരോ തവണയും ലോഗ് എൻ സമയം പ്രോസസ്സ് ചെയ്യുന്നു തുടർന്ന് ഒരു ശീർഷകം കത്തിച്ചുകഴിഞ്ഞാൽ ദൂരം അപ്ഡേറ്റുചെയ്യുന്നതിന് ഓരോ തവണയും ലോഗ് എൻ സമയം എടുക്കും പക്ഷേ ഞങ്ങൾ ഇത് ചെയ്യുന്നു ഓരോ അരികിലും അതിനാൽ ഇത് n ലോഗ് n ആണ് അതിനാൽ ഒരു ശീർഷകം തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങൾക്ക് n ലോഗ് n ഉണ്ട് ഇത് ഒരു ദൂരം അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് ശരിയാണ് അതിനാൽ അൽഗോരിതം n പ്ലസ് m ലോഗ് n ആയി മാറുന്നു അതിനാൽ ഒരു ഗ്രാഫിൽ n പ്ലസ് m എന്നത് ശരിക്കും ഒരു വസ്തുത ഗ്രാഫിന്റെ വലുപ്പമാണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഇത് O n സ്ക്വയറിലേക്കുള്ള ഒരു പോസ്റ്റായി ശരിക്കും ഒരു n ലോഗ് n അൽഗോരിതം ആണ് മാത്രമല്ല ഞങ്ങൾ തരംതിരിക്കലും മറ്റ് പ്രശ്നങ്ങളും കാണുന്നു O n സ്ക്വയറിൽ നിന്ന് n ലോഗ് n ലേക്ക് പോകുന്ന ഒരു വലിയ പ്രായോഗിക ജമ്പാണിത് ഞങ്ങൾക്ക് പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രശ്നത്തിന്റെ വലുപ്പത്തിന്റെ ഒരു വലിയ കുതിപ്പാണ് ഇത് അതിനാൽ ഡിജ്ക്സ്ട്രാ അൽഗോരിതം വളരെ നിർണായകമായ ഒരു അനുമാനം നൽകുന്നു അത് അതിന്റെ അത്യാഗ്രഹപരമായ ചുവടുകളുടെ കൃത്യതയെ ഉൾക്കൊള്ളുന്നു അതായത് പ്രകൃതിയുമായി യാതൊരു പ്രതികൂല വിലയും ഇല്ല ശരിയാണ് ഞങ്ങളുടെ ബേൺ സെറ്റിലേക്ക് ചേർക്കുന്നതിന് അടുത്ത അയൽക്കാരനായി v തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വഴി വരുന്ന ഹ്രസ്വ പാത നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല പക്ഷേ വ്യക്തമായും ഞങ്ങൾക്ക് നെഗറ്റീവ് അരികുകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാത പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നതാണ് ഞങ്ങളുടെ വാദം ദൈർഘ്യം 4 വരെ ഉള്ളതാകാം പക്ഷേ ഞാൻ അവിടെ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ വലത് മൈനസ് 3 ഉണ്ടായിരിക്കാം അതിനാൽ ഞാൻ ഈ വഴിയിൽ വന്നാൽ പിന്നെ എനിക്ക് പ്ലസ് 1 ന്റെ ആകെ ചെലവ് വഹിക്കും അതേസമയം ഞാൻ ഈ വഴി പോയാൽ എനിക്ക് പ്ലസ് 2 ലഭിക്കും ശരിയാണ് അതിനാൽ പ്രാദേശികമായി അടുത്തുള്ള ഒരു അയൽക്കാരനെ തിരയുന്നതിലൂടെ ഞാൻ ഏറ്റവും കുറഞ്ഞ ദൂരം കണ്ടെത്തണമെന്നില്ല അതിനാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഗ്രാഫിൽ നെഗറ്റീവ് വഴികൾ ഇടാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം ശരി ഗ്രാഫുകൾ വളരെ പൊതുവായ മോഡലാണെന്ന് ഓർമ്മിക്കുക നിങ്ങൾക്ക് നെഗറ്റീവ് വഴികളെ വിവേകപൂർവ്വം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് അതിനാൽ ഞങ്ങൾ ഒരു ടാക്സി ഡ്രൈവറോട് പറയുകയാണെന്നും ഗ്രാഫിനെ സ്ഥലങ്ങളുടെ ഒരു പട്ടികയായി കാണുന്നുവെന്നും കരുതുക അവിടെ ഞങ്ങൾ ആളുകളെ എടുത്ത് ഉപേക്ഷിക്കുന്നു ഇപ്പോൾ വ്യക്തമായും യാത്രക്കാരൻ കാറിലുണ്ടായിരുന്ന സെഗ്മെന്റുകളുണ്ട് കൂടാതെ ഞങ്ങൾ ഉണ്ടായിരിക്കേണ്ട സെഗ്മെന്റുകളും ഒരു യാത്രക്കാരൻ ഇല്ലായിരിക്കാം അയാൾ ഒരു സ്ഥലത്തേക്ക് മടങ്ങുകയായിരിക്കാം ഉദാഹരണത്തിന് വിമാനത്താവളത്തിൽ നിന്ന് ഒരു ടാക്സി ഡ്രൈവർ പ്രവർത്തനം ഒരു സ trip ജന്യ യാത്രയ്ക്ക് ശേഷം സാധാരണ വിമാനത്താവളത്തിലേക്ക് മടങ്ങാം കാരണം അവിടെ നിന്ന് നഗരത്തിനുള്ളിൽ കൂടുതൽ യാത്രകൾ കണ്ടെത്താമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അതിനാൽ അദ്ദേഹം ശൂന്യമായി സഞ്ചരിക്കുന്ന സെഗ്മെന്റുകളുണ്ട് അയാൾക്ക് യാത്രക്കാരുള്ള സെഗ്മെന്റുകളുണ്ട് അതിനാൽ ചില സെഗ്മെന്റുകൾ പണം സമ്പാദിക്കുന്നു ചില സെഗ്മെന്റുകൾ പണം ഉപയോഗിക്കുന്നു അതിനാൽ ചില പോസിറ്റീവ് അരികുകളും ചില നെഗറ്റീവ് അരികുകളുമുണ്ട് മറ്റ് സാഹചര്യം ഇതുവരെ നാം കണ്ട ഒന്നിനോടും പൂർണ്ണമായും ബന്ധമില്ലാത്തതാണ് രാസവസ്തുക്കൾ രാസ സംയുക്തങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം ഒരു സംയുക്തത്തെ മറ്റ് സംയുക്തങ്ങളിലേക്ക് ഞങ്ങൾ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്ന് പറയുന്ന ഗ്രാഫിനെ പ്രതിനിധീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് ഇവിടെ പ്രായഭാരത്തിന് ഈ പ്രക്രിയയിൽ പുറത്തുവിടുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്ന energy ർജ്ജത്തെ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ വീണ്ടും അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം ശരിയാണ് അതിനാൽ എഡ്ജ് നെഗറ്റീവ് എഡ്ജ് എന്നിവയിൽ അർത്ഥമുണ്ടാക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടെ നെഗറ്റീവ് എഡ്ജ് എന്താണ് ചെയ്യുന്നത് ഭാരം അതിനാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സൈക്കിൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ലൂപ്പ് ഞാൻ പറഞ്ഞ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മൈനസ് 3 മൈനസ് 2 പ്ലസ് 1 എന്നിവ ചേർക്കുന്നു ഞാൻ സൈക്കിളിന് ചുറ്റും പോയാൽ ഒരിക്കൽ വലത്തേയ്ക്ക് മടങ്ങുക അപ്പോൾ എനിക്ക് മൈനസ് 4 ന്റെ ആകെ ചിലവ് വരും അതിനാൽ ഇതിനർത്ഥം മറ്റെവിടെയെങ്കിലും ആരംഭിച്ച ഒരു പാത എനിക്കുണ്ടെങ്കിൽ ഇവിടെ വന്ന് സൈക്കിൾ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നാണ് ഞങ്ങൾക്ക് ഒരു ഉറവിടവും ടാർഗെറ്റും ഉണ്ടായിരുന്നുവെന്ന് കരുതുക അപ്പോൾ എനിക്ക് ഒരു ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള ദൂരം അനിയന്ത്രിതമായി ചെറുതാക്കാം ഈ ലൂപ്പിനെ ചുറ്റിക്കറങ്ങുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്യുക ഓരോ തവണയും ഞാൻ ലൂപ്പിന് ചുറ്റും പോകുമ്പോൾ ചെലവ് മൈനസ് കുറയ്ക്കുന്നു 4 അതിനാൽ എന്റെ ചിലവിൽ ഞാൻ മൈനസ് 4 ചേർക്കുന്നത് തുടരുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് ചുറ്റും എത്ര തവണ പോകുന്നു എന്നതിനെ ആശ്രയിച്ച് ചെലവ് എനിക്ക് ആവശ്യമുള്ളത്ര കുറവായിരിക്കും അതിനാൽ എനിക്ക് ഒരു ഗ്രാഫിൽ നെഗറ്റീവ് സൈക്കിളുകൾ ഉണ്ടെങ്കിൽ ഹ്രസ്വമായ പാതയുടെ ചോദ്യം പോലും അർത്ഥമാക്കുന്നില്ല ഒരു ഹ്രസ്വ പാതയെക്കുറിച്ച് ഒരു ധാരണയുമില്ല കാരണം അളവ് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഞാൻ ഈ ചക്രം നിരാകരിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് അരികുകൾ ഉണ്ടാകാം പക്ഷേ നെഗറ്റീവ് സൈക്കിൾ അല്ല അതിനാൽ ഉദാഹരണത്തിന് പ്ലസ് 1 ന് പകരം ഇത് പ്ലസ് 7 ആണെന്ന് ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ ഈ രീതിയിൽ പ്ലസ് 7 ഉണ്ടാക്കി സൈക്കിളിന് ചുറ്റും പോകുന്നത് എന്നെ പ്ലസ് 2 ആക്കും അതിനാൽ സൈക്കിളിനു ചുറ്റും പോകാൻ ഇത് എന്നെ സഹായിക്കുന്നില്ല കാരണം ഇത് എന്റെ ചിലവ് വർദ്ധിപ്പിക്കുന്നു അതിനാൽ എനിക്ക് നെഗറ്റീവ് സൈക്കിൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പക്ഷേ എനിക്ക് നെഗറ്റീവ് അരികുകളുണ്ട് അത് ഹ്രസ്വമായ പാതയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഇപ്പോഴും അർത്ഥമുണ്ട് ഇവ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഡിജക്സ്ട്രയുടെ അൽഗോരിതം ഒഴികെയുള്ള മറ്റ് അൽഗോരിതങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ പിന്നീട് കാണും പ്രത്യേകിച്ചും ഞങ്ങൾ ബെൽമാൻ ഫോർഡ് അൽഗോരിതം നോക്കും കൂടാതെ ഫ്ലോയ്ഡ് മാർഷൽ അൽഗോരിതം എന്നറിയപ്പെടുന്ന സിംഗിൾ സോഴ്സ് ഷോർട്ട് പാത്ത് പ്രശ്നത്തെ സാമാന്യവൽക്കരിക്കുന്ന എല്ലാ ജോഡി ഹ്രസ്വ പാത പ്രശ്നങ്ങളും ഞങ്ങൾ കാണും നെഗറ്റീവ് സൈക്കിളുകൾ ഇല്ലെങ്കിൽ പാതകൾ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഭാരം നെഗറ്റീവ് ആണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ ഞങ്ങൾ ഇവ പരിഹരിക്കും